സോളിഡ് വർക്കുകൾ തുടരുന്നുഎൻപിടെൽ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഞങ്ങളുടെ എൻ പി റ്റി ഇ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ക്ലാസുകളിൽ സോളിഡ് വർക്കുകളിലെ ചില ആശയങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് മുതൽ സോളിഡ് വർക്കിലെ നൂതന ആശയങ്ങൾ പഠിക്കാം ഒരു റഫറൻസ് തലം നിർമ്മിക്കുക എന്നതാണ് ആദ്യംചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരു മുൻ പ്രതലം മുകളിലെ പ്രതലം വലത് പ്രതലം എന്നിവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾക്കറിയാം നമ്മൾക്ക് അത്തരം ഉപരിതലങ്ങളുണ്ടെങ്കിൽ ഒരു രേഖാചിത്രം വരയ്ക്കേണ്ട അവസ്ഥയിലായിരിക്കും നമ്മൾഎക്സ്ട്രൂഡ് ഓപ്ഷനുകൾ ഉപയോഗിക്കുക എക്സ്ട്രൂഡ് കട്ട് എക്സ്ട്രൂഡ് ബോസ് ഒരുപക്ഷേ ഇത് നിർമ്മിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഫില്ലറ്റ് ചെയ്യുക എന്നിരുന്നാലും വസ്തുവിന് വ്യത്യസ്ത തരം ഉപരിതലങ്ങളുണ്ടെങ്കിൽ ചെരിഞ്ഞ പ്രതലങ്ങൾ കുറച്ച് ഓഫ്സെറ്റ് ആയ കർവിലീനിയർ ഉപരിതലങ്ങൾ അത്തരം ഉപരിതലങ്ങൾ എങ്ങനെ നിർമ്മിക്കാം നമ്മൾ റഫറൻസ് തലം എന്ന പേരിലാണിത് പഠിക്കാൻ പോകുന്നത് അതിനാൽ ഇപ്പോൾ നമുക്ക് സോളിഡ് വർക്കുകൾ തുറക്കാം ഇപ്പോൾ നമുക്ക് മുൻ പ്രതലത്തിൽ ഒരു വസ്തു നിർമ്മിക്കാം ചെരിഞ്ഞ പ്രതലങ്ങളുള്ള ഒരു l കോണീയ തരം ബ്രാക്കറ്റ് നമുക്ക് നിർമ്മിക്കും അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വരി ഉപയോഗിക്കുകഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുക അവിടെ പോകുക സാധാരണയായി മെക്കാനിക്കൽ ഒബ്ജക്റ്റിനെ പിന്തുണയ്ക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള എൽ കോണീയ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ആ നീളത്തിൽ ഒന്നിനായി 100 യൂണിറ്റുകൾ പോലുള്ളവ നിലനിർത്താൻ സ്മാർട്ട് അളവുകൾ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ ഇത് 100 യൂണിറ്റുകളും ഇപ്പോൾ ഈ വശത്തെ ഫ്ലേഞ്ച് കനം കൺട്രോൾ ബട്ടൺ അമർത്തി ഈ വശത്തെ ഫ്ലേഞ്ച് കനം വരക്കുക അതിനാൽ ആദ്യം ഒരു കൺട്രോൾ ഹോൾഡ് തിരഞ്ഞെടുത്ത് രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുക അതിനെ ഒരു തുല്യ ഓപ്ഷനാക്കുക അത് ചെയ്യുന്നതിലൂടെ നമ്മൾ കട്ടിയുള്ള ഒരു വശത്തിന്റെ അളവ് മാറ്റാൻ പോകുമ്പോഴെല്ലാം മറ്റ് കനങ്ങൾ മാറുന്നു അതിനായി നമ്മൾ ഈ തുല്യ ചിഹ്നം ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ സ്മാർട്ട് അളവിലേക്ക് പോകുക ഈ കനം 10 യൂണിറ്റായി നിലനിർത്തുക അതിനാൽ മറ്റൊരു വശവും ഉചിതമായി മാറുന്നു ഇപ്പോൾ ഈ മുഴുവൻ കാര്യവും നമ്മൾ അതിനെ 3 അളവുകളിൽ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അതിന്റെ നീളം 100 യൂണിറ്റാണ് ഒരു എൽ കോണീയ ബ്രാക്കറ്റ് പോലെ നിർമ്മിക്കാൻ അതേ 100 യൂണിറ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള മൂർച്ചയുള്ള അരികുകൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആർക്ക് പോലുള്ള ഒന്ന് ഉപയോഗിക്കുകയും ആ ഭാഗങ്ങൾ നീക്കംചെയ്യുകയും ചെയ്യുക എന്നതുമാണ് ഈ ഹ്രസ്വ കോണുകൾ കുറയ്ക്കുന്നതിന് ഫില്ലറ്റ് ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു മാർഗം അതിനാൽ ഇതും തിരഞ്ഞെടുക്കുക ഫില്ലറ്റ് ഉപയോഗിക്കുക ഇവിടെ നമുക്ക് എല്ലായ്പ്പോഴും ആ ഫില്ലറ്റ് വലുപ്പം 50 വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് വളരെയധികം ആണ് അതിനാൽ നമുക്ക് ആ ഫീച്ചേഴ്സ് എഡിറ്റുചെയ്യാം ഒരുപക്ഷേ ഇത് 10 മില്ലീമീറ്ററാക്കാം ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സർക്കിളുകൾ വരയ്ക്കാം വൃത്തത്തിന്റെ ആരം നമുക്ക് സ്മാർട്ട് അളവ് 12 യൂണിറ്റുകളും ഈ ഒരു കേന്ദ്ര പോയിന്റും ഉപയോഗിക്കാം നമുക്ക് സ്മാർട്ട് അളവ് ഉപയോഗിക്കാം ഈ വരിയിലേക്ക് ഈ സെന്റർ പോയിന്റ് 12 യൂണിറ്റുകളും തിരഞ്ഞെടുക്കുക അതുപോലെ ഈ പോയിന്റിലേക്കുള്ള ഈ പോയിന്റും ഇതിനെ 12 യൂണിറ്റുകളാക്കുന്നു അതിനാൽ അത് അതിന്റെ കേന്ദ്രമായിരിക്കും ഇപ്പോൾ ഈ ലൈന് സമാന്തരമായി മിറർ ചെയ്യുക ഈ ഇപ്പോൾ രണ്ട് സർക്കിളുകൾ ചെയ്തു ഈ കട്ട് ഭാഗങ്ങൾ നീക്കംചെയ്യാൻ നമ്മൾ എക്സ്ട്രൂഡ് ഓപ്ഷൻ ഉപയോഗിക്കും ഈ ആവശ്യത്തിനായി ഇത് തിരഞ്ഞെടുക്കുക ഫീച്ചേഴ്സിലേക്ക് പോകുക എക്സ്ട്രൂഡ് കട്ട് ചെയ്തുകഴിഞ്ഞാൽ ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ നമുക്ക് ഈ ദ്വാരങ്ങളുണ്ട് അതിലൂടെ നമുക്ക് ഈ ബോൾട്ടുകളും നട്ടുകളും ഇടാം അതുപോലെ ആ ഉപരിതലത്തിന് മുകളിൽ നമുക്ക് കേന്ദ്രത്തിൽ മറ്റൊരു സർക്കിൾ ഉണ്ടാക്കാം അതിനാൽ ഇപ്പോൾ ഇതിലെ മധ്യരേഖയും ഈ മധ്യരേഖയിലേക്കുള്ള ദൂരം 0 ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഒരു സ്ഥല കേന്ദ്രമായിരിക്കും ഇപ്പോൾ ഇത് തിരഞ്ഞെടുക്കുക സവിശേഷതകളിലേക്ക് പോകുക ഇപ്പോൾ ആ ഭാഗത്തിലൂടെ ഒരു ഷാഫ്റ്റ് പോലെയുള്ള ഒന്ന് ബോട്ടം ഭാഗത്തേക്ക് കടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഇത് 20 യൂണിറ്റാക്കാംഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ ഉപരിതലത്തിൽ ഒരു ചെരിഞ്ഞ ഉപരിതലമുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിൽ അധിക കാര്യം ഉണ്ടാകും അതിനാൽ വ്യത്യാസ തലം നിർമ്മിക്കാൻ ആദ്യം നമ്മൾ അവിടെ പോയി ക്ലിക്കുചെയ്യുക ഇതാണ് ഒബ്ജക്റ്റ് അതേ ചെരിവ് കോണിനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി രണ്ടാമത്തെ റഫറൻസ് തിരഞ്ഞെടുത്ത് ഈ കോണിനെ 315 ഡിഗ്രിയിലേക്ക് മാറ്റുക ഇപ്പോൾ നമ്മൾ ചെയ്തത് കാരണം ആ ചെരിഞ്ഞ പ്രതലത്തിൽ ഒരു വസ്തു നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മുൻവശത്തെ പ്രതലം മുകളിലെ പ്രതലം സൈഡ് പ്രതലം എന്നിവയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ചെരിവിൽ നമ്മുക്ക് ഒരു സ്കെച്ച് നിർമ്മിക്കാൻ കഴിയില്ല അതിനായി നമ്മൾചെയ്യുന്നത് ഈ പ്രതലവുമായി ബന്ധപ്പെട്ടാണ് ഈ ലൈനിലൂടെ കടന്നുപോകുന്ന ഒരു പ്രതലം കൂടി നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് മുകളിലേക്കുള്ള ദിശയാകാം അത് താഴേക്കുള്ള ദിശയും ആയിരിക്കും 315 ഡിഗ്രിക്ക് പകരം നമ്മൾ അതിനെ 30 ഡിഗ്രി ആക്കാൻ പോകുന്നുവെങ്കിൽ അത് കുറയുന്നു അതിനാൽ ഏത് അനിയന്ത്രിതമായ കോണിലും എനിക്ക് ഒരു പ്രതലം നിർമ്മിക്കാൻ കഴിയും അതിനാൽ ആദ്യം നമുക്ക് 315 സൂക്ഷിക്കാം ഓക്കേ ക്ലിക്കുചെയ്യുക അത് ആ പ്രതലത്തിൽ സാധാരണ ചെയ്തുകഴിഞ്ഞാൽ എന്തും നിർമ്മിക്കാം ഉദാഹരണത്തിന് ഇവിടെ ഒരു സർക്കിൾ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടാതെ 24 വ്യാസമുള്ള ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം അവിടെ നിന്ന് ഈ വരിയിലേക്ക് കടന്നുപോകുന്ന ഒരു വരി കൂടി നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് ട്രിം ചെയ്യാൻ മുന്നോട്ട് പോകും ഓക്കേ ക്ലിക്കുചെയ്യുക എന്നിട്ട് ഇത് തിരഞ്ഞെടുക്കുക ഈ വരി ഇത് ഒബ്ജക്റ്റ് പുറത്തെടുക്കാൻ ബോസ് ബേസ് പുറത്തെടുക്കുക ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉപരിതലത്തിനു നോർമൽ ആയി എനിക്ക് ഒരു പ്രതലം നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ ഈ മുഴുവൻ വസ്തുവും ആ ഉപരിതലത്തിന്റെ മറുവശത്ത് സ്പർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഒബ്ജക്റ്റിന്റെ എക്സ്ട്രൂഡ് ഈ ഉപരിതലത്തെ പൂർണ്ണമായും സ്പർശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ദിശ വിപരീതമാക്കുക അതിനാൽ ഉപരിതലം വരെ ഉണ്ട് അതിനാൽ ഉപരിതലത്തിലേക്ക് ക്ലിക്കുചെയ്യുക നിയന്ത്രണ ബട്ടൺ തുടർന്ന് ഈ ഉപരിതലത്തിൽ ക്ലിക്കുചെയ്യുക ഈ വസ്തുവിലേക്ക് തുളച്ചുകയറാൻ ഈ മുഴുവൻ കമാന വസ്തുക്കളും വീണ്ടും ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഉപരിതലത്തിലേക്ക് നമ്മൾ ഒരു പ്രൊജക്ഷൻ ആഗ്രഹിക്കുന്നു ഇത് സാധാരണ എക്സ്ട്രൂഡ് കാര്യമാണെങ്കിൽ അത് അതിന്റെ പുറത്തോ അകത്തോ പോകുന്നു ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു നിയന്ത്രണം നോക്കാം രണ്ടാമത്തേത് മൂന്നാമത് നാലാമത്തേത് ഇതാണ് നമ്മൾ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുറത്തെടുക്കുന്നു നമ്മൾ ദിശ തിരിച്ചിടുകയാണെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള അർദ്ധ തുളച്ചുകയറുന്ന ഉപരിതലങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഉപരിതല തലം വരെ നമ്മൾ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ബ്ലൈൻഡ്സിന് പകരം ഉപരിതലത്തിലേക്ക് പോകുക ഏത് ഉപരിതലത്തിലേക്ക് ഈ ഉപരിതലത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ മുഴുവൻ വസ്തുവും ആ ഉപരിതലത്തിലേക്ക് പുറത്തെടുത്തതായി നിങ്ങൾ കാണുന്നുവെങ്കിൽ ആ പ്രൊജക്ഷൻ എന്തായാലും നമ്മൾക്ക് അത് ലഭിക്കും ഇപ്പോൾ ഒരു ബോൾട്ട് കൂടി ശരിയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ആവശ്യത്തിനായി ഉപരിതലത്തിന്റെ നോർമലിലേക്കു പോകുക ഇപ്പോൾ ഒരു സ്കെച്ച് വരയ്ക്കുക ഒരുപക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം മധ്യരേഖയിലൂടെ കടന്നുപോകണം അതിനാൽ ഇപ്പോൾ ഈ ഭാഗത്ത് സൂം ചെയ്യുക സ്മാർട്ട് അളവ് ഉപയോഗിക്കുക ആദ്യ ഒരു നിയന്ത്രണ ബട്ടൺ സെന്റർ ലൈൻ തിരഞ്ഞെടുക്കുക ഓക്കേ ക്ലിക്കുചെയ്യുക തുടർന്ന് അത് 0 ആക്കുക അതിൽ ഇപ്പോൾ ഒരു ദ്വാരം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ അതിൽ ഒന്ന് ക്ലിക്കുചെയ്യുക ഫീച്ചേഴ്സുകളിലേക്ക് പോകുക എക്സ്ട്രൂഡ് കട്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് അത് നോക്കാം നമ്മുക്ക് ഒരു പൂർണ്ണ കട്ട് വേണമെങ്കിൽ 50 മില്ലീമീറ്ററാക്കി മാറ്റാം അതിനാൽ അത് ആ ദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ ആ വസ്തുവിലൂടെ കടന്നുപോകുന്ന ഒരു ദ്വാരമുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു സ്ലോട്ട് പോലെ എന്തെങ്കിലും ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഉപരിതലത്തിൽ മാത്രം അതിനാൽ ഒരു ചതുരാകൃതിയിലുള്ള സ്ലോട്ട് പോലുള്ള ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഭാഗം ആ ആവശ്യത്തിനായി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ദീർഘചതുരം നിർമ്മിക്കുക ഇപ്പോൾ ഈ ഭാഗം തിരഞ്ഞെടുത്തു എക്സ്ട്രൂഡ് കട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ കനം 50 വരെ കൂടരുത് എന്നാൽ 10 മില്ലീമീറ്റർ കട്ട് പോലുള്ള ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് 5 മില്ലീമീറ്ററിൽ കുറവായിരിക്കാം നിങ്ങൾക്ക് സ്ലോട്ട് പോലെയുള്ള ഒന്ന് സാധിക്കും ഇപ്പോൾ ഈ റഫറൻസ് തലം ഉണ്ടെങ്കിലും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് മറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ അതിൽ ക്ലിക്കുചെയ്യണം ഒരു കാഴ്ച പോലെയുള്ള ഒന്ന് ഉണ്ട് അതിൽ ക്ലിക്കുചെയ്യുക റഫറൻസ് തലം മറയ്ക്കും ഇപ്പോൾ ഈ ഉപരിതലത്തിൽ അതിലൂടെ കടന്നുപോകാൻ ചായ്വുള്ള മറ്റൊരു ഷഡ്ഭുജം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി ഒരു റഫറൻസ് തലം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തുചെയ്യണം ആദ്യം ഈ തലം തിരഞ്ഞെടുക്കുക റഫറൻസ് ജ്യാമിതിയിലേക്ക് പോകുക ഈ വരിയുമായി ബന്ധപ്പെട്ട് ഈ ഉപരിതലം തിരഞ്ഞെടുത്ത് ഒരു റഫറൻസ് തലം നിർമ്മിക്കുക രണ്ടാമത്തെ റഫറൻസ് ക്ലിക്കിനായി അതിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ആംഗിൾ മാറ്റുക 315 ഡിഗ്രിക്ക് പകരം 300 ഡിഗ്രി വേണം നമുക്ക് ഇത് നോക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ലാപ്ടോപ്പ് രൂപകൽപ്പന ചെയ്യുക ഇത്തരത്തിലുള്ള റഫറൻസ് പ്രതലങ്ങൾ എല്ലായ്പ്പോഴും സഹായകരമാകും നമുക്ക് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ റഫറൻസ് തലം നിർമ്മിച്ചുകഴിഞ്ഞാൽ അതിനു നോര്മലായി ഒരു സ്കെച്ച് ഒരു ഷഡ്ഭുജം പോലുള്ള എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സ്മാർട്ട് അളവ് ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ പോയിന്റും ഈ പോയിന്റും 20 യൂണിറ്റ് അകലത്തിലായിരിക്കണം പൂർത്തിയായി ഇപ്പോൾ ആ സർക്കിൾ നീക്കംചെയ്യുക ഇപ്പോൾ ആ സർക്കിൾ നീക്കംചെയ്യുക അതിന്റെ അളവുകൾ ഉണ്ട് ഇത് ക്ലിക്കുചെയ്യുക ഫീച്ചേഴ്സുകളിലേക്ക് പോകുക ബോസ് ബേസ് പുറത്തെടുക്കുക ഏത് നിലയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഉപരിതല നില വരെ അതിനാൽ ഇത് ഉപരിതലം ബ്ലൈണ്ടല്ല ഉപരിതലം ഇതാണ് ഓക്കേ ക്ലിക്കുചെയ്യുക നമുക്ക് ഈ ഭാഗം സൂം ചെയ്യാം അതിനാൽ വ്യത്യസ്ത ഉപരിതലങ്ങളിൽനമ്മൾ വസ്തുക്കൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വസ്തുക്കളാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിനാൽ ആദ്യത്തെ ആശയങ്ങൾ ഈ റഫറൻസ് തലം നിർമ്മിക്കുന്നതിനാണ് ഇപ്പോൾ അതേ റഫറൻസ് പ്ലെയിൻസ് ആശയം ഉപയോഗിക്കുന്നു ട്യൂബുകൾ പൈപ്പുകൾ മറ്റ് തരത്തിലുള്ള മെക്കാനിക്കൽ വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാക്കും അതിനാൽ അതും നോക്കാം അതിനാൽ വീണ്ടും ഒരു പുതിയ ഭാഗം ഇപ്പോൾ മുൻ പ്രതലത്തിലേക്ക് പോകുക നമുക്ക് 0 മുതൽ ആരംഭിക്കുന്ന ഒരു ലൈൻ നിർമ്മിക്കാം നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഞ്ചിംഗ് ജംഗ്ഷൻ അതിനാൽ ഇപ്പോൾ സ്കെച്ച് ഫില്ലറ്റ് ഉപയോഗിക്കുക അത് പ്രയോഗിക്കുക സമാനമായി ഇത് പ്രയോഗിക്കുക ഇത് പ്രയോഗിക്കുക നമ്മൾക്ക് 5 മില്ലീമീറ്റർ ആവശ്യമില്ല പക്ഷേ 10 മില്ലീമീറ്റർ എന്നാൽ നമ്മൾക്ക് താൽപ്പര്യമുള്ള 8 മില്ലീമീറ്റർ പോലുള്ള ഒന്ന് അതിനാൽഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ നമ്മൾക്ക് ഒരു വക്രമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഘട്ടത്തിലോ ഈ ഘട്ടത്തിലോ ഈ മുഴുവൻ വസ്തുവിനെയും കറക്കുകയാണെങ്കിൽ ഒരു ബ്രാഞ്ച് ജോയിന്റായ ഒരു പൈപ്പ്ലൈൻ നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും അതിനാൽ നമ്മൾ ആ ടോപ്പ് പ്രതലം എടുക്കണം ഒരു നിശ്ചിത ദൂരത്തിന്റെ ഒരു സർക്കിൾ ഉണ്ടാക്കുക ഒരുപക്ഷേ 3 യൂണിറ്റുകൾ തുടർന്ന് ശരി ക്ലിക്കുചെയ്യുക ഇപ്പോൾ സർക്കിൾ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഫീച്ചേഴ്സുകളിലേക്ക് പോകുക സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരിക ഈ ഒബ്ജക്റ്റ് ക്ലിക്കുചെയ്യുക ഫീച്ചേർസിൽ ഒരു ഓപ്ഷൻ ഉണ്ട് സ്വീപ്പ് ബോസ് ബേസ് അതിൽ ക്ലിക്കുചെയ്യുക അതിനാൽ ഇതാണ് ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റ് നമ്മൾ ഒരു നിശ്ചിത അച്ചുതണ്ടിനെയോ വരിയെയോ ചുറ്റാൻ പോകുന്നു അതിനാൽ ആ ആവശ്യത്തിനായി നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നീല ഒന്ന് സ്കെച്ച് 2 ആണ് അത് നമ്മൾ സർക്കിളായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മജന്തയിൽ ഒന്ന് ക്ലിക്കുചെയ്യുക തുടർന്ന് ലൈനിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് ശരി ക്ലിക്കുചെയ്യുക അതിനാൽ ആ പൈപ്പ് ശൃംഖല നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും ഇവിടെ അത് ഒരു സോളിഡ് വസ്തുവാണ് അത് വളഞ്ഞതുപോലെയാണ് ഇപ്പോൾ വളരെ നേർത്ത ഭാഗം പോലെ എന്തെങ്കിലും നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്നത് റദ്ദാക്കി നമുക്ക് അത് പഴയപടിയാക്കാം അതിനാൽ ആദ്യം ഈ വൃത്താകൃതിയിലുള്ള ഭാഗം തിരഞ്ഞെടുക്കുക തുടർന്ന് ഈ വരിയിലേക്ക് പോകുക ഇതിൽ ക്ലിക്കുചെയ്യുക നേർത്ത ഫീച്ചേഴ്സുകൽ പോലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ 1 മില്ലീമീറ്റർ 0 05 മില്ലീമീറ്ററായി മാറ്റുക തുടർന്ന് ശരി ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾ വളരെ നേർത്ത ട്യൂബ് ഭാഗം കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഒരു മാർഗം സോളിഡ് നിർമ്മിക്കുക എന്നതാണ് മറ്റൊന്ന് ഈ നേർത്ത ഭാഗം ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഒരു മെറ്റൽ ഷീറ്റ് ട്യൂബ് നിർമ്മിക്കുന്ന അവസ്ഥയിലായിരിക്കും അടുത്ത ക്ലാസുകളിൽ അസംബ്ലി കാര്യങ്ങളെക്കുറിച്ചും ഈ സോളിഡ് വർക്കുകൾ ഉപയോഗിച്ച് ഓട്ടോമേഷൻ എങ്ങനെ നിർമ്മിക്കാമെന്നും നമ്മൾ പഠിക്കും